നമ്മൾ അസൈൻമെന്റ് നമ്പർ 3 പരിഹരിക്കുന്നു നമ്മൾ 5 നമ്പർ വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു അതിനാൽ ഇവിടെ നമ്മൾ 6 മുതൽ 10 വരെ പ്രശ്നങ്ങൾ പരിഹരിക്കും പ്രശ്നം 6 പറയുന്നു ഒരു ദ്വിമാന ലോകമുണ്ടെന്ന് കരുതുക അവിടെ കാണുന്നു കണ്ടക്ടറിൽ ചാർജ് ചെയ്യുന്നത് ഉപരിതലമാണ് അതിനാൽ ദ്വിമാന ലോകങ്ങളിൽ ഇത് ഒരു ഡിസ്ക് പോലെയാകും നിങ്ങൾ ഇവിടെ ഒരു ചാർജ് നൽകിയാൽ എല്ലാം ഉപരിതലത്തിലേക്ക് വരുന്നു അത് ഉപരിതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു ചുവപ്പ് നിറത്തിൽ ഇത് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറയട്ടെ ഇതെല്ലാം ഉപരിതലത്തിൽ വരുന്നു അതിനാൽ ഒരു സമമിതി വൃത്താകൃതിയിലുള്ള സമമിതി അല്ലെങ്കിൽ സിലിണ്ടർ സമമിതി എന്നിവ ഉള്ളതിനാൽ എല്ലാ ചാർജുകളും ഒരേപോലെ വിതരണം ചെയ്യപ്പെടും പ്രഭാഷണം 26 ൽ 511 മിനിറ്റിനുള്ളിൽ നൽകിയ വാദത്തെ തുടർന്ന് അവിടെ പോയിന്റ് ചാർജ് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലത്തിന്റെ ആശ്രിതത്വം കണ്ടെത്തുക ഇപ്പോൾ ഇത് ഒരു കണ്ടക്ടറാണെങ്കിൽ ഉള്ളിലെ ഫീൽഡ് 0 ആയിരിക്കണം അതിനാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാദം ഈ ഡോട്ട് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഫീൽഡ് നോക്കുകയും ഇവിടെ ഇരുവശത്തും പിങ്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുക ഇപ്പോൾ ഫീൽഡ് 0 ആണെങ്കിൽ ചാർജ് ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ ആശ്രിതത്വം അത്തരത്തിലുള്ളതായിരിക്കണം അതിനുള്ളിലെ ഫീൽഡുകൾ 0 ആണ് ഈ പോയിന്റ് നമുക്ക് പറയാം അത് r 2 അകലെയുള്ള വലിയ വിഭാഗവും r 1 താഴത്തെ വിഭാഗത്തിൽ നിന്ന് ഫീൽഡ് 0 ഉം ഫീൽഡ് 0 ആകാൻ പോകുന്നു ഇപ്പോൾ എല്ലാ ദൂരങ്ങളും ഒരുപോലെയാണ് അതിനാൽ ഇരു വശത്ത് നിന്ന് റദ്ദാക്കിയാൽ ഫീൽഡ് 0 ആയിരിക്കും r2θλr2n r1θλr1n 0If n1 ⟹ E∝1r ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ചെറിയ വശത്തെ ചാർജ് r 1 തീറ്റ തവണയാണ് എന്തായാലും നമുക്ക് ഇതിനെ ലാംഡ എന്ന് വിളിക്കാം ചാർജ് ഡെൻസിറ്റി ചാർജ് മറുവശത്ത് ചാർജ് r 2 തീറ്റ തവണ ലാംഡയായിരിക്കും ഇപ്പോൾ വൈദ്യുത മണ്ഡലത്തിന്റെ r ആശ്രയത്വം നമുക്ക് പറയാൻ കഴിയും 1 ഓവർ r റൈസ് ടു n അപ്പോൾ നടുവിലുള്ള ഈ ഫീൽഡ് r 2 തീറ്റ തവണ ലാംഡ ഓവർ r 2 റൈസ് ടു n മൈനസ് r 1 തീറ്റ ലാംഡ r ഓവർ r റൈസ് ടു n ഇത് 0 ആകാനുള്ള ഒരേയൊരു മാർഗ്ഗം n 1 ന് തുല്യമാണെങ്കിൽ ഇത് E എന്നത് 1 ഓവർ r ആയി പോകണം എന്നാണ് ത്രിമാന ലോകത്ത് E 1 ഓവർ r സ്ക്വയറായി പോകുന്നു എന്നത് ഓർമ്മിക്കുക ഇപ്പോൾ ഈ ദ്വിമാന ലോകം ഞാൻ എങ്ങനെ തിരിച്ചറിയും ഇത് വളരെ ലളിതമാണ് ഞാൻ നീളമുള്ള സിലിണ്ടർ അനന്തമായ നീളമുള്ള സിലിണ്ടർ എടുക്കുന്നുവെന്ന് കരുതുക അതിൽ മൂന്നാമത്തെ അളവ് ഏതെങ്കിലും രീതിയിൽ സംയോജിപ്പിക്കും അടിസ്ഥാനപരമായി ഇലക്ട്രിക് ഫീൽഡ് ഒരു ദ്വിമാന ലോകമായി മാറുന്നു കൂടാതെ ഫീൽഡ് 1 ഓവർ r ആയി പോകുന്നുവെന്ന് എനിക്കറിയാം അടുത്തതായി ഞാൻ പ്രശ്നം നമ്പർ 7 പരിഹരിക്കാൻ പോകുന്നു അത് ഒരു പോയിന്റ് ദ്വിധ്രുവമുണ്ടെന്ന് പറയുന്നു അത് ഒരു കണ്ടക്ടറിലെ ഒരു അറയ്ക്കുള്ളിൽ സ്ഥാപിക്കുന്നു അതിനാൽ എനിക്ക് അനിയന്ത്രിതമായ ആകൃതിയിലുള്ള ഒരു കണ്ടക്ടർ ഉണ്ട് അതിനകത്ത് ഒരു അറ ഉണ്ടാക്കി ഇവിടെ ഒരു ദ്വിധ്രുവം ഇടുക ഒരു പോയിന്റ് ദ്വിധ്രുവം അറയുടെ ഉപരിതലത്തിലെ ഉപരിതല ചാർജ് സാന്ദ്രത ഞാൻ സിഗ്മ 1 കൊണ്ട് കാണിക്കുന്നു അതിന് പുറത്ത് സിഗ്മ 2 ഉം അകത്തെ നെറ്റ് ചാർജ് Q 1 ഉം നെറ്റ് ചാർജ് പുറത്ത് Q 2 ഉം ആണ് സിഗ്മ 1 സിഗ്മ 2 Q 1 Q 2 എന്നിവയിൽ എന്താണ് സത്യം അതിനാൽ ഈ പോയിന്റ് ദ്വിധ്രുവം നിർമ്മിക്കുന്ന ഫീൽഡ് നോക്കാം ഞാൻ ഈ ദ്വിധ്രുവം നീക്കംചെയ്യാൻ പോകുന്നു ഇവിടെ ഒരു പോയിന്റ് ഇടുക അത് എവിടെയാണെന്നും ഫീൽഡ് ലൈനുകൾ ഇതുപോലെയാകാൻ പോകുന്നു ഇവിടെ അവർ സ്വയം അടയ്ക്കും ഇവിടെ അവർ വരും ഇവിടെ അവർ സ്വയം അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ ഉപരിതലത്തിലേക്ക് നോക്കുകയും വളരെ ചെറിയ ഒരു ബോക്സ് നിർമ്മിക്കുകയും ചെയ്താൽ ലോഹത്തിനുള്ളിലെ ഫീൽഡ് 0 ആണെന്ന് ഓർമ്മിക്കുക ഈ ചെറിയ ബോക്സിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് പൂജ്യമല്ലാത്തതായിരിക്കും അതിനാൽ സിഗ്മ 1 പൂജ്യo അല്ല തീർച്ചയായും സിഗ്മ 1 ഈ വശത്തേക്ക് പോകുന്നത് നെഗറ്റീവ് ആകാൻ പോകുന്നു ഈ വശത്ത് താഴത്തെ ഭാഗത്ത് പോസിറ്റീവ് ആകാൻ പോകുന്നു പക്ഷേ ഇത് പൂജ്യമല്ല എന്നിരുന്നാലും ഈ ഗോസ്സ്സിയൻ ഉപരിതലത്തിലെ ലോഹപ്രവാഹത്തിനുള്ളിലെ ഗോസ്സ്സിയൻ ഉപരിതലത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ കാരണം ഫീൽഡ് നമ്പർ 1 ഇല്ല നമ്പർ 2 ഒരു ദ്വിധ്രുവത്തിലെ നെറ്റ് ചാർജും 0 ആണ് കാരണം ഈ ഗ ഗോസ്സ്സിയൻ ഉപരിതലത്തിൽ ചാർജ്ജ് 0 ആയതിനാൽ ദ്വിധ്രുവത്തിന് ഇതിനകം നെറ്റ് ചാർജ് 0 ഉണ്ട് അതിനാൽ Q 1 ഉം 0 ആണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഈ അറയുടെ പച്ച ഉപരിതലത്തിനുള്ളിൽ അറയുടെ ഉപരിതലത്തിൽ ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ വിതരണമുണ്ട് അതിനർത്ഥം സിഗ്മ 1 പൂജ്യമല്ലാത്തതാണ് എന്നിരുന്നാലും നെറ്റ് ചാർജ് 0 ലേക്ക് സമന്വയിപ്പിക്കുന്ന തരത്തിലാണ് സിഗ്മ 1 പുറത്ത് എന്താണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നു അതിനാൽ ഇവിടെ ആന്തരിക അറയുണ്ട് ഇവിടെ ഒരു പോയിന്റ് ദ്വിധ്രുവമുണ്ട് ഇവിടെ ഫീൽഡ് പൂജ്യo ആണ് നെറ്റ് ചാർജ് ഇവിടെ പൂജ്യo ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ പുറം വശത്തെ മൊത്തം ചാർജ് Q 2 ഉം പൂജ്യo ആയിരിക്കും കാരണം അറയിൽ നിഷ്പക്ഷതയുണ്ട് അതിനാൽ ആന്തരിക ഉപരിതലത്തിൽ ചാർജ്ജ് എടുക്കുന്നില്ല പുറം ഉപരിതലത്തിന് പൂജ്യo ചാർജും ഉണ്ട് അവ ലോഹത്തിനുള്ളിൽ ചാർജ് വിതരണമായിരിക്കരുത് അതിനാൽ ബൾക്ക് മെറ്റലിൽ എന്തായാലും ചാർജില്ല ചാർജ് ഉപരിതലത്തിൽ മാത്രമേ വരൂ അതിനാൽ ബാഹ്യ ചാർജ് പൂജ്യo ആണ് ഈ പൂജ്യo ചാർജ് വിതരണം ചെയ്യാൻ കഴിയുമോ അതിനർത്ഥം എനിക്ക് സിഗ്മ 2 0 ന് തുല്യമാകാതിരിക്കാൻ കഴിയുമോ ഞാൻ ചെയ്തുവെന്ന് കരുതുക അതിനാൽ എവിടെയെങ്കിലും കുറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു തൽഫലമായി ഇത് നെറ്റ് ചാർജ് 0 ആണ് മറ്റെവിടെയെങ്കിലും നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം അതിനാൽ ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൽ നിന്ന് ഒരു ഫീൽഡ് ലൈൻ ഉണ്ടാകും അതിനർത്ഥം പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൽ നിന്ന് ചാർജ് എടുക്കുന്ന ജോലി പൂജ്യമല്ലാത്തതായിരിക്കും എന്നിരുന്നാലും ഒരു ലോഹ ഉപരിതലം എല്ലായ്പ്പോഴും സ്ഥിരമായ പോട്ടെൻഷ്യൽ ഉള്ള ഉപരിതലമാണ് അതിനാൽ നമ്മൾ ലോഹത്തിനകത്ത് നിന്ന് പോയാൽ അല്ലെങ്കിൽ കണ്ടക്ടർ വർക്ക് ഡൺ 0 ആണ് അതിനാൽ ഞാൻ പുറം ഭാഗത്ത് നിന്ന് വന്നാൽ കുറച്ച് വർക്ക് ഡൺ ഉണ്ടാകും ആന്തരിക ഭാഗത്ത് നിന്ന് ഡൺ 0 ആകുമെന്നും കാരണം അത് യാഥാസ്ഥിതിക മേഖലയാണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ വേർതിരിവ് ഇല്ലെങ്കിൽ അത് സംഭവിക്കാത്ത ഒരേയൊരു മാർഗ്ഗം അതിനാൽ പുറത്ത് സിഗ്മ 2 ഉം 0 ആണ് അതിനാൽ ഈ കേസിലെ ഉത്തരം സിഗ്മ 1 പൂജ്യമല്ലാത്തതാണ് എന്നിരുന്നാലും Q 1 0 ഉം സിഗ്മ 2 0 ഉം Q 2 ഉം ആണ് ds01 ≠0 Q1020 Q20 അടുത്ത പ്രശ്നo നമ്പർ 8 ആന്തരിക ദൂരം R 1 ബാഹ്യ ദൂരം R 2 എന്നിവയുടെ ഇൻസുലേറ്റിംഗ് ഗോളാകൃതി ഷെൽ ഒരു ഏകീകൃത ധ്രുവീകരണം വഹിക്കുന്നു അതിനാൽ നമുക്ക് ആന്തരിക ആരം R 1 പുറം ദൂരം R 2 എന്നിവയുടെ ഒരു ഷെൽ ഉണ്ട് അത് ഒരു പി ധ്രുവീകരണം വഹിക്കുന്നു ബന്ധിത ഉപരിതല ചാർജ് ആന്തരിക ഉപരിതലത്തിൽ സിഗ്മ 1 തീറ്റയും പുറം ഉപരിതലത്തിൽ സിഗ്മ 2 തീറ്റയും ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അതിർത്തി ചാർജുകൾ മറ്റൊന്നുമല്ലെന്ന് നമുക്കറിയാം പി ഡോട്ട് നോർമൽ പി ഡോട്ട് നോർമൽ ഉപരിതലത്തിലെ നോർമൽ ലേക്ക് വിരൽ ചൂണ്ടുന്നു കാരണം നോർമൽ വോളിയത്തിൽ നിന്ന് അകലെയാണ് പുറം ഉപരിതലത്തിൽ നോർമൽ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ സിഗ്മ 1 തീറ്റ P ആകാൻ പോകുന്നു ഇത് P z മടങ്ങ് നോർമൽ ആണ് ഇത് മൈനസ് r ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നു അതിനാൽ ഇത് യുടെ മൈനസ് പി കോസൈൻ തീറ്റ തീറ്റ ആയിരിക്കും മറുവശത്ത് P z dot r ലേക്ക് പോകുന്നു കാരണം ഇത് സമൂലമായി പുറത്തായതിനാൽ P കൊസൈൻ തീറ്റ ആയിരിക്കും 1 P r Pcosθ അതിനാൽ ഈ അറയിൽ ബന്ധിത ചാർജ് ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കാണപ്പെടും ആന്തരിക ഉപരിതലത്തിൽ തീറ്റ 0 മുതൽ നെഗറ്റീവ് താഴത്തെ ഭാഗത്ത് പോസിറ്റീവ് പുറം ഉപരിതലത്തിൽ മറ്റൊരു വഴി പി കോസൈൻ തീറ്റ മുകളിലെ അർദ്ധഗോളത്തിൽ പോസിറ്റീവും താഴത്തെ അർദ്ധഗോളത്തിൽ നെഗറ്റീവുമാണ് ആശ്രിതത്വം പി കോസൈൻ തീറ്റയായി നൽകുന്നു അടുത്തതായി പ്രശ്നം 8 ന്റെ വൈദ്യുത മണ്ഡലം ആവശ്യപ്പെടുന്ന പ്രശ്നം 9 നമ്മൾ പരിഹരിക്കുന്നു അതിനാൽ പ്രശ്നം 8 പരിഹരിക്കാൻ തയ്യാറാണ് അവിടെ ചാർജുകളും പ്ലസ് ഈ വശവും മൈനസും ഈ വശത്ത് കോസൈൻ തീറ്റ ആശ്രയത്വം എനിക്കറിയാവുന്ന ഈ ചാർജുകൾ എനിക്ക് വിപരീത ദിശയിലുള്ള ഒരു വൈദ്യുത മണ്ഡലം നൽകുന്നു അത് മൈനസ് പി ഓവർ 3 എപ്സിലോൺ 0 z ആയിരിക്കും ആന്തരിക അറ കാരണം ഫീൽഡിനെക്കുറിച്ച് എന്തു പറയുന്നു ആന്തരിക അറയിൽ ഒരു ചാർജ്ജ് ഉണ്ട് അത് മുകൾ ഭാഗത്ത് നെഗറ്റീവ് താഴെ പോസിറ്റീവ് ആണ് അതിനാൽ ഇതിന് ഒരു ദ്വിധ്രുവ മോമെന്റ്റ് താഴേക്ക് പോകുന്നു ഈ ദ്വിധ്രുവ മോമെന്റ്റ് ഒരു ദ്വിധ്രുവ ഫീൽഡ് നൽകും അതിനാൽ അധിക ഫീൽഡ് സംഭവിക്കുന്നത് ദ്വിധ്രുവ മോമെന്റ്റ് ന്റെ ദ്വിധ്രുവമാണ് ഇത് 4 pi by 3 R 1 ക്യൂബ്ഡ് P z z ന്റെ വിപരീത ദിശയിലാണ് E P30zFor inner cavity dipole of P 4π3R13Pz ഇത് കാണാനുള്ള മറ്റൊരു മാർഗ്ഗം ഈ മുഴുവൻ അറയും ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഏകീകൃത ധ്രുവീകരണമുള്ള ഒരു അറയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയും അത് ഞാൻ ചുവപ്പ് നിറത്തിൽ കാണിക്കുകയും അതിൽ ചേർക്കുകയും ചെയ്യുന്നത് ഒരു അധിക ധ്രുവീകരണമാണ് ഈ അറയ്ക്കുള്ളിലെ നെഗറ്റീവ് ദിശ അതിനാൽ രണ്ട് ധ്രുവീകരണവും R 1 ആരം റദ്ദാക്കുന്ന ഈ മേഖലകൾക്കുള്ളിലാണെന്നും ഒന്നും ഇല്ലെന്നും അതിനാൽ ഇലക്ട്രിക്കൽ എനിക്ക് ഇതുപോലൊന്ന് ചിന്തിക്കാൻ കഴിയും എനിക്കറിയാം എനിക്ക് ഒരു ഫീൽഡ് നൽകൂ E യൂണിഫോം പോളറൈസേഷൻ എനിക്ക് ഒരു ഫീൽഡ് മൈനസ് പി 3 എപ്സിലോൺ 0 z പ്ലസ് ഫീൽഡ് നൽകുന്നു ഇതുമൂലം നെഗറ്റീവ് പോളറൈസേഷൻ ഗോളമാണ് ഇത് വിലയേറിയതാണ് അതാണ് ഉത്തരം അവസാനമായി സിലിണ്ടറിനെ ഇൻസുലേറ്റിംഗിനുള്ളിലെ വൈദ്യുത മണ്ഡലമായ ചോദ്യ നമ്പർ 10 നമ്മൾ പരിഹരിച്ചു അവ ധ്രുവീകരണമാണ് x ദിശ P P ന് തുല്യമാണ് ഇപ്പോൾ ഇത് വളരെ ലളിതമാണ് കാരണം P x എന്നാൽ ഉപരിതല ചാർജ് ഉണ്ട് ബൾക്ക് ചാർജ് ഇല്ല പക്ഷേ ഉപരിതല ചാർജ് സിഗ്മ പി ഡോട്ട് എസ് ആണ് കാരണം എസ് എൻ ആണ് ഇത് പി കോസൈൻ ഫൈ ആണ് അതിനാൽ ഇതിൽ നമുക്ക് ഉള്ളത് പോസിറ്റീവ് x അക്ഷത്തിൽ പോസിറ്റീവ് ചാർജും മറുവശത്ത് നെഗറ്റീവ് ചാർജുമാണ് sPcosϕE P20 x അതിനാൽ ഫീൽഡ് നെഗറ്റീവ് x ദിശയിലായിരിക്കുമെന്ന് എനിക്ക് കാണാൻ കഴിയും അതിനുശേഷം ഇത് ദ്വിമാന കാര്യമാണ് അതിനാൽ ഇ ആകാൻ പോകുന്നു പി ഓവർ 2 എപ്സിലോൺ 0 x അസൈൻമെന്റ് 3 പൂർത്തിയാകുന്നു